നമസ്കാരം 'ഇൻട്രോഡക്ഷൻ ടു മെക്കാനോബയോളജി' കോഴ്സിലെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലെക്ച്ചറിൽ അമീബോയ്ഡൽ മൈഗ്രേഷൻ അഥവാ അമീബോയ്ഡൽ മോട്ടിലിറ്റി എന്നറിയപ്പെടുന്ന മൈഗ്രേഷന്റെ ഒരു ഇതരമാർഗ്ഗത്തെ കുറിച്ച് നാം ചർച്ച ആരംഭിച്ചിരുന്നു മീസെൻകൈമൽ മൈഗ്രേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ എഡ്ഹെഷൻ ഡിപെൻഡന്റായ മൈഗ്രേഷനിൽ ആകൃതിയിൽ സാരമായ മാറ്റങ്ങൾ പ്രകടമാണ് എന്നതാണ് എന്നാൽ അമീബോയ്ഡൽ മൈഗ്രേഷനിൽ കാണപ്പെടുന്ന കോശങ്ങളുടെ വേഗത ഇവയുടെ ഒരു സവിശേഷതയാണ് മേല്പറഞ്ഞ മൈഗ്രേഷനുകളെ MM AM എന്ന് ചുരുക്കി നമുക്ക് വിശേഷിപ്പിക്കാം അക്ഷരാർത്ഥത്തിൽ VAM VMM നേക്കാൾ VAM VMM വളരെ വലുതാണ് എന്ന് സാരം ആയതിനാൽ മീസെൻകൈമൽ കോശങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ നൂറിരട്ടി വേഗത്തിൽ അമീബോയ്ഡൽ മോട്ടിലിറ്റി കാഴ്ചവെക്കുന്ന കോശങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത അമീബോയ്ഡൽ മോട്ടിലിറ്റിയുടെ വിവിധയിനങ്ങളെ കുറിച്ച് നാം നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു 2D നിൽ പ്രധാനമായും മൂന്ന് വ്യത്യസ്ത സാധ്യതകളാണ് ഉള്ളത് ഇതിനെ നമുക്ക് A C P എന്ന് സൂചിപ്പിക്കാവുന്നതാണ് മീസെൻകൈമൽ മൈഗ്രേഷനിൽ കാണപ്പെടുന്നത് പോലെ കോശങ്ങൾ പ്രൊട്രൂഡ് ചെയ്യുകയും അതിന്റെ ഭാഗമായി ആക്റ്റിനിൽ അധിഷ്ഠിതമായ പ്രൊട്രൂഷനുകൾ രൂപപ്പെടുകയും ക്രമേണ സുസ്ഥിരമാകുന്ന ഇവ കൺട്രാക്ടയിലിറ്റിയുടെ സഹായത്താൽ കോശങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു ഇത് സാധാരണയായി കണ്ടുവരുന്ന 2D മീസെൻകൈമൽ മൈഗ്രേഷനാണ് ഇത് കൂടാതെ 2D പ്രൊട്രൂസീവും ഉണ്ട് ഇവിടെ പ്രൊട്രൂസീവ് ഫോഴ്സ് വളരെയധികം പ്രബലമായിരിക്കും എഡ്ഹെഷൻ നിലനിൽക്കുന്നുണ്ട് എങ്കിലും കൺട്രാക്ടയിലിറ്റിയുടെ തോത് തീർത്തും അപ്രധാനമായിരിക്കും കോശങ്ങളുടെ വലുപ്പം തീരെ ചെറുതായതിനാലാണ് ഇത് സാധ്യമാകുന്നത് കോശങ്ങൾ ഒരു പക്ഷെ വലുതായിരുന്നുവെങ്കിൽ അവയിൽ മേല്പറഞ്ഞ രീതിയിലുള്ള ലോക്കലൈസ്ഡ് പ്രൊട്രൂഷൻ മെംബ്രേയ്ൻ ടെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് ഉതകാതെ വരുകയും ആയതിനാൽ കോശങ്ങൾക്ക് മുന്നോട്ട് ചലിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നു 2D നിൽ കാണപ്പെടുന്ന മൂന്നാമത്തെ ഇനം മോട്ടിലിറ്റിയാണ് 2D കൺട്രാക്ടയിൽ ഇവിടെ എഡ്ഹെഷനും കൺട്രാക്ടയിലിറ്റി C യും അനിവാര്യമാണ് എന്നാൽ P യുടെ തോത് തീർത്തും തുച്ഛമായിരിക്കും ഇത്തരത്തിലുള്ള മൈഗ്രേഷനെ നാം ബ്ലെബ് ബേസ്ഡ് മൈഗ്രേഷൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് 3D നിൽ സാധാരണയായി എഡ്ഹെഷനിന് അധികപ്രാധാന്യമില്ല എന്നതാണ് വസ്തുത കാരണം കോശങ്ങൾക്ക് ചുറ്റും വലയം ചെയ്യുന്ന മെട്രിക്സ് അവയുടെ ചലനത്തിന് ആവശ്യമായ തോതിൽ പ്രതിരോധം നൽകുന്നുണ്ട് എന്നതാണ് സവിശേഷത ആയതിനാൽ എഡ്ഹെഷന്റെ തോത് തീർത്തും അപ്രധാനമാണെങ്കിലും കോശങ്ങൾക്ക് ചലനം പ്രാപ്യമാണ് എന്ന് സാരം ഇത് കൂടാതെ 3D പ്രൊട്രൂസീവ് ഉണ്ട് ഇതിൽ പ്രൊട്രൂഷൻ പ്രബലമാണ് എന്നാൽ A യും C യും തീർത്തും അപ്രസക്തമായിരിക്കും ന്യൂക്ലിയസിന്റെ വലുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലുതോ അല്ലെങ്കിൽ സമാന വലുപ്പമുള്ളതോ ആയ പോർ സൈസ് ഉള്ള ഒരു മെട്രിക്സിൽ 3D പ്രൊട്രൂസീവ് നിലനിർത്താൻ സാധിക്കും എന്നതാണ് വസ്തുത മൂന്നാമത്തേതെന്ന് പറയുന്നത് 3D കൺട്രാക്ടയിലാണ് ഇവിടെ ബ്ലെബുകൾ രൂപവത്കൃതമാകുകയും ന്യൂക്ലിയസിൽ സജീവമായ രൂപഭേദം പ്രകടമാകുകയും ചെയ്യുന്നുണ്ട് 3D കൺട്രാക്ടയിലിനെ സംബന്ധിച്ചിടത്തോളം മയോസിൻ കൺട്രാക്ടയിലിറ്റിയുടെ പ്രവർത്തനത്തിലൂടെ ന്യൂക്ലിയസ് ഞെരുക്കപ്പെടുന്നുണ്ട് കോഴ്സിന്റെ വരും ഭാഗങ്ങളിൽ നാം ഇതിനെ പറ്റി വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അഡാപ്റ്റീവ് ഫോഴ്സ് ട്രാൻസ്മിഷൻ എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള ഗവേഷണപ്രബന്ധത്തിൽ നിന്നും നമുക്ക് ചർച്ച പുനഃരാരംഭിക്കാം മേല്പറഞ്ഞ പ്രബന്ധത്തിന്റെ രചയിതാക്കൾ ഡെൻഡ്രൈറ്റിക് കോശങ്ങളെ GFP LifeAct കൊണ്ട് ട്രാൻസ്ഫെക്ട് ചെയ്യുകയും അവയിൽ പ്രകടമാകുന്ന റിട്രോഗ്രേഡ് ഫ്ലോ കൈമോഗ്രാഫുകൾ ഉപയോഗപ്പെടുത്തി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്താണ് മേല്പറഞ്ഞ കൈമോഗ്രാഫ് നിങ്ങൾക്ക് മുൻപിൽ ഒരു മെംബ്രേയ്ൻ ഉണ്ടെന്ന് കരുതുക അതിന്റെ ഏതെങ്കിലും ഭാഗത്തായി ഒരു ചെറിയ സ്ട്രിപ്പ് വരയ്ക്കുക അവയുടെ അകത്തും പുറത്തുമായി നമുക്ക് ബിന്ദുക്കൾ കാണാൻ സാധിക്കും ഇവയെ നാം സമയബന്ധിതമായി ട്രാക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഇതാണ് നിങ്ങളുടെ ടൈം ആക്സിസ് ഇത് ലെങ്താണ് ഈ കാണുന്നതാണ് നിങ്ങളുടെ ഔട്ടർ പോയിന്റ് ഇത് ഇന്നർ പോയിന്റാണ് ഒരു ഫ്ലൂറസെന്റ് സിഗ്നൽ ലഭ്യമാകുകയാണെങ്കിൽ അതിന്റെ പരിണിതഫലമായി നിങ്ങൾക്ക് റിട്രോഗ്രേഡ് ഫ്ലോ കാണാൻ സാധിക്കുന്നു ഇതിൽ നിന്നും നിങ്ങൾക്കൊരു സ്ലോപ്പ് വരയ്ക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വസ്തുത ഒരു നിശ്ചിത ഘട്ടത്തിൽ ഇന്റെൻസിറ്റി ഉള്ളിലേക്ക് പടർന്നിറങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇത് റിട്രോഗ്രേഡ് ഫ്ലോയുടെ സവിശേഷതയാണ് ഈ സ്ലോപ്പും ഈ കാണുന്ന വരയുടെ സ്ലോപ്പും ഉപയോഗപ്പെടുത്തി റിട്രോഗ്രേഡ് ഫ്ലോയുടെ കൃത്യമായ വ്യാപ്തി നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താവുന്നതാണ് പോളി ലൈസീൻ അഥവാ എഡ്ഹെറെന്റ് അവസ്ഥ ഉപയോഗപ്പെടുത്തി ഗവേഷകർ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയ നീരീക്ഷണങ്ങൾ ഇപ്രകാരമാണ് നിയന്ത്രിത വ്യവസ്ഥയിൽ വിന്യസിക്കുന്ന കോശങ്ങളിൽ നിയതമായ വ്യാപ്തിയിൽ റിട്രോഗ്രേഡ് ഫ്ലോ കണ്ടെത്തുകയുണ്ടായി ലാട്രൻക്യുലിൻ ഉപയോഗിച്ച് പോളിമറൈസേഷൻ പ്രക്രിയ തടസ്സപ്പെടുത്തിയ കോശങ്ങളിലും സമാനമായ പ്രവണത കണ്ടെത്തിയിരുന്നു ലാട്രൻക്യുലിൻ പ്ലസ് ബ്ലെബ് റിട്രോഗ്രേഡ് സംയുക്തം പ്രയോഗിക്കുമ്പോൾ ലഭ്യമാകുന്ന റിട്രോഗ്രേഡ് ഫ്ലോ ആക്സിസാണിത് ഇത് പൂർണ്ണമായും നിരാകരിക്കപ്പെട്ട ഒന്നാണ് കാരണം മീസെൻകൈമൽ മൈഗ്രേഷന് സമാനമായി മയോസിൻ മോട്ടോറുകൾ ധാരാളമായി കാണാൻ സാധിക്കുന്നത് കൊണ്ടാണിത് റിട്രോഗ്രേഡ് ഫ്ലോയ്ക്ക് നിദാനമാകുന്നതും മേല്പറഞ്ഞ മയോസിൻ തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തതെല്ലാം എഡ്ഹെറെന്റ് സാഹചര്യങ്ങളിൽ കാണപ്പെടുന്ന കാര്യങ്ങളാണ് ഇനി നോൺ എഡ്ഹെറെന്റ് സന്ദർഭങ്ങളിൽ കോശങ്ങൾ എപ്രകാരം മൈഗ്രേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടെത്തുന്നതിനായി ഗവേഷകർ ഏതാനും ചില മുന്നൊരുക്കങ്ങൾ നടത്തുകയുണ്ടായി ഇതൊരു നോൺ എഡ്ഹെറെന്റ് പ്ലേറ്റാണ് വളരെ ഇനർട്ടായ അഗാരോസിന്റെ ഒരു പാളികൊണ്ട് മേല്പറഞ്ഞ പ്ലേറ്റിനെ പോളിമറൈസ് ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കോശങ്ങൾക്ക് അഗാരോസുമായി പറ്റിച്ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയില്ല തുടർന്ന് അവർ ഈ കാണുന്ന വെല്ലിന്റെ രണ്ടറ്റത്തുമായി രണ്ട് ദ്വാരങ്ങൾ തുളയ്ക്കുകയുണ്ടായി അതിന്റെ ഒരറ്റത്തായി കോശങ്ങളും മറ്റേ അറ്റത്തായി CCL 19 എന്ന കീമോകൈനും ചേർക്കുകയുണ്ടായി മേല്പറഞ്ഞ കീമോകൈൻ കോശങ്ങളെ ആകർഷിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് മേല്പറഞ്ഞ സജ്ജീകരണത്തിൽ ഈ കാണുന്ന മേഖലയിൽ ഞാൻ സസൂക്ഷ്മം നീരീക്ഷിക്കുകയാണെങ്കിൽ അഗാരോസ് പാളിയുടെ കീഴിലൂടെ കീമോകൈനിന്റെ സ്വാധീനത്തിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കോശം നിങ്ങൾക്ക് ദൃശ്യമാകും നിയതമായ ഒരു ഗ്രേഡിയന്റ് രൂപപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കീമോകൈൻ ഗ്രേഡിയന്റ് ഇതിന്റെ സ്വാധീനത്തിൽ കോശങ്ങൾ ഇടത് നിന്നും വലത്തോട്ട് കൺഫൈൻമെന്റിന് കീഴിൽ നോൺ എഡ്ഹെറെന്റ് സാഹചര്യങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കിപ്പറഞ്ഞാൽ ഇതൊരു നോൺ എഡ്ഹെറെന്റ് കൺഫൈൻഡ് കീമോടാക്ടിക് മൈഗ്രേഷനാണ് മേല്പറഞ്ഞ സാഹചര്യത്തിൽ റിട്രോഗ്രേഡ് ഫ്ലോ ട്രാക്കുചെയ്ത് ഞാൻ പ്ലോട്ട് ചെയ്യുകയാണെന്ന് കരുതുക നിയന്ത്രിതമായ വ്യവസ്ഥയിൽ തുടരുന്ന കോശങ്ങളിൽ റിട്രോഗ്രേഡ് ഫ്ലോ വളരെയധികം അപ്രസക്തമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കോശം ഈ കാണുന്ന ദിശയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് രണ്ട് തരം വരകൾ വരയ്ക്കാൻ സാധിക്കും ഒന്ന് സ്ലൈഡ് ടൈം 0832 ൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ലൈൻ ഒന്നിലൂടെയാണ് അതായത് ഈ കാണുന്നത് ലൈൻ ഒന്നിലൂടെ അളന്ന് തിട്ടപ്പെടുത്തിയ റിട്രോഗ്രേഡ് ഫ്ലോയാണ് ഇത് കൂടാതെ ലൈൻ രണ്ടിലൂടെ ലംബദിശയിലുള്ളതും അളന്ന് തിട്ടപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഈ ഭാഗത്ത് താരതമ്യേന തുച്ഛമായ റിട്രോഗ്രേഡ് ഫ്ലോ മാത്രമാണ് ലഭ്യമായത് ഇവിടെ Lifeact GFP ക്ക് പകരമായി MLC GFP ഉപയോഗപ്പെടുത്തി ട്രാൻസ്ഫെക്ട് ചെയ്ത കോശങ്ങളാണിത് MLC GFP എന്നാൽ GFP യുമായി ടാഗ് ചെയ്ത മയോസിൻ ലൈറ്റ് ചെയിൻ എന്നർത്ഥം സമാനമായ കോശങ്ങളാണ് അവർ കണ്ടെത്തിയത് മേല്പറഞ്ഞ കോശങ്ങളെ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ മുൻപത്തെ കോശങ്ങളിൽ കാണപ്പെടുന്ന ആക്റ്റിന്റെ വിതരണരീതി പ്രകാരം ഈ ഭാഗത്തായി നിയതമായ ഒരു ആക്റ്റിൻ സോൺ കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ ഇവയെല്ലാം പലയിടങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന രീതിയിലാണ് ദൃശ്യമാകുക മയോസിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അവ വിദൂരത്തിൽ നിന്നും ആരംഭിച്ച് ശേഷം പലയിടത്തായി പടരുന്ന വിതരണരീതിയാണ് ഇവ കൈക്കൊള്ളുന്നത് ലീഡിങ് എഡ്ജിൽ മയോസിൻ കാണപ്പെടുന്നില്ല ഈ സമയം റിട്രോഗ്രേഡ് ഫ്ലോ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവയുടെ വശങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് കണ്ടെത്താൻ സാധിക്കുന്നത് വശങ്ങളിൽ നിന്നും ഉള്ളിലേക്കായി കൺട്രാക്ഷന്റെ സ്വാധീനത്തിൽ ഉടലെടുക്കുന്നതിന് സമാനമായ ഫ്ലോ അനുഭവപ്പെടുന്നതായി നമുക്ക് വ്യക്തമാകുന്നു ഇവിടെ ലൈൻ രണ്ടിന് സമാന്തരമായി കൺട്രാക്ഷൻ പ്രകടമാകുന്നുണ്ട് എന്നതാണ് വസ്തുത ഇത്തരത്തിലുള്ള മൈഗ്രേഷനുകൾക്ക് ഇന്റെഗ്രിൻ എഡ്ഹെഷനുകൾ അനിവാര്യമാണോ എന്ന ചോദ്യമാണ് പിന്നീട് അവർ ഉന്നയിച്ചത് പ്രസ്തുത സന്ദർഭത്തിൽ തീർത്തും പ്രവർത്തനക്ഷമമായ ഇന്റെഗ്രിനുകൾ ദൃശ്യമാണ് എന്നവർ കണ്ടെത്തുകയുണ്ടായി എന്നാൽ കൺഫൈൻന്റ് മൈഗ്രേഷൻ നിലനിർത്തുന്നതിന് ഇന്റെഗ്രിനുകളുടെ ആവശ്യമില്ല എന്നതാണ് വസ്തുത ഇതും നമുക്ക് ട്രാക്ക് ചെയ്യുവാൻ സാധിക്കും അതിനായി റിട്രോഗ്രേഡ് ഫ്ലോ ഒന്നുകൂടി അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് മാത്രം തീർത്തും വിസ്മയിപ്പിക്കുന്ന ചില കണ്ടെത്തലുകളാണ് അവർ നടത്തിയത് ഇന്റെഗ്രിൻ ഡെഫിഷ്യന്റായ കോശങ്ങളുടെ കൈമോഗ്രാഫ് നമുക്കൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം ഈ കാണുന്നതാണ് മുന്നോട്ട് ചലിക്കുന്ന മെംബ്രേയ്ൻ ഇതാണ് ടൈം ആക്സിസ് ഇത് ലെങ്ത് ആക്സിസാണ് റിട്രോഗ്രേഡ് ഫ്ലോയുടെ വ്യാപ്തിയിൽ വർദ്ധനവ് പ്രകടമാകുന്നതിന് ആനുപാതികമായി റിട്രോഗ്രേഡ് ഫ്ലോയെ സൂചിപ്പിക്കുന്ന സ്ട്രീക്കുകളിലും സമാനമായ വർദ്ധനവ് പ്രകടമാകുന്നുണ്ട് നിയന്ത്രിത വ്യവസ്ഥയിൽ തുടരുന്ന കോശങ്ങളുടെ ശരാശരി റിട്രോഗ്രേഡ് ഫ്ലോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്റെഗ്രിൻ ഡെഫിഷ്യന്റ് അഥവാ ഇന്റെഗ്രിൻ അശേഷമില്ലാത്ത കോശങ്ങളിൽ കൂടിയ തോതിലുള്ള റിട്രോഗ്രേഡ് ഫ്ലോയാണ് നമുക്ക് ദൃശ്യമാകുന്നത് മേല്പറഞ്ഞ ഉയർന്ന റിട്രോഗ്രേഡ് ഫ്ലോയ്ക്ക് അനുസൃതമായ പ്രൊട്രൂഷന്റെ നിരക്കിനെ കുറിച്ചാണ് ഗവേഷകർ അടുത്ത ചോദ്യം ഉന്നയിക്കുന്നത് നിയന്ത്രിത വ്യവസ്ഥയിൽ തുടരുന്ന കോശങ്ങളും ഇന്റെഗ്രിൻ ഇല്ലാത്ത കോശങ്ങളും തമ്മിലുള്ള പ്രൊട്രൂഷൻ റേറ്റ് എന്നത് തീർത്തും സമാനമാണ് എന്നതാണ് അതിശയകരമായ മറ്റൊരു വസ്തുത ഈ കാണുന്നത് നിയന്ത്രിത വ്യവസ്ഥയിൽ തുടരുന്ന വൈൽഡ് ടൈപ്പ് കോശങ്ങളും ഇത് ഇന്റെഗ്രിൻ ഇല്ലാത്ത കോശങ്ങളുമാണ് ഇവയ്ക്ക് രണ്ടിനും ഒരേ പ്രൊട്രൂഷൻ റേറ്റാണ് മേല്പറഞ്ഞ ഇന്റെഗ്രിനുകൾ നീക്കം ചെയ്തുകഴിഞ്ഞാൽ ആക്റ്റിൻ പോളിമറൈസേഷൻ നിരക്കിലും ഗണ്യമായ വ്യതിയാനം പ്രകടമാകും എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്താണ് ഈ ആക്റ്റിൻ പോളിമറൈസേഷൻ റേറ്റ് ആക്റ്റിൻ പോളിമറൈസേഷൻ റേറ്റിനെ വളരെ ലളിതമായി പ്രൊട്രൂഷൻ റേറ്റ് പ്ലസ് റിട്രോഗ്രേഡ് ഫ്ലോ എന്ന് നമുക്ക് എഴുതാവുന്നതാണ് ഇത് ഉപയോഗപ്പെടുത്തി കണക്കാക്കി നോക്കിയാൽ ഇന്റെഗ്രിൻ ഇല്ലാത്ത കോശങ്ങളിൽ ആക്റ്റിൻ പോളിമറൈസേഷൻ റേറ്റ് അധികമായിരിക്കും എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇത് ഒരു തരത്തിലുള്ള അഡാപ്റ്റീവ് പ്രതികരണമാണ് ECM സൈറ്റോസ്കെലിറ്റന്റെ ലിങ്കേജ് ദുർബ്ബലമായാൽ ആക്റ്റിൻ പോളിമറൈസേഷനിൽ വർദ്ധനവുണ്ടാകും എന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് റ്റാലിൻ നെഗറ്റീവ് അഥവാ റ്റാലിൻ നൾ കോശങ്ങളെ PEG ക്ക് മുകളിൽ പ്ലേറ്റ് ചെയ്ത് നടത്തിയ പരീക്ഷണങ്ങളിലൂടെ മേല്പറഞ്ഞത് തെളിയിക്കാൻ ഗവേഷകർ ശ്രമം നടത്തുകയുണ്ടായി PEG തീർത്തും ഇനർട്ടായതിനാൽ കോശങ്ങൾക്ക് ഇവയ്ക്കുമേൽ എഡ്ഹെഷനുകൾ രൂപപ്പെടുത്തുക സാധ്യമല്ല എന്നിരുന്നാലും ഇവ തമ്മിൽ ഒരു സുപ്രധാന വ്യത്യാസമുണ്ട് എന്നതാണ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഒന്ന് റ്റാലിൻ നൾ കോശങ്ങളിൽ കാണപ്പെടുന്ന ആക്റ്റിൻ പോളിമറൈസേഷൻ റേറ്റിന്റെ ആകെത്തുക ഈ കാണുന്നതാണ് എങ്കിൽ PEG യിൽ കാണപ്പെടുന്ന ആക്റ്റിൻ പോളിമറൈസേഷന്റെ റേറ്റ് എന്നത് ഇതിനോടടുത്ത് പോലും എത്തുന്നില്ല എന്നതാണ് വസ്തുത റ്റാലിൻ നൾ കോശങ്ങളും PEG പ്രതലത്തിൽ ഉള്ളവയും തമ്മിൽ വ്യത്യാസങ്ങൾ നിലവിലുണ്ട് എന്ന് സാരം പ്രധാനമായും രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത് ഒന്ന് എപ്രകാരമാണ് റിട്രോഗ്രേഡ് ഫ്ലോയിൽ വർദ്ധനവ് പ്രകടമാകുന്നത് രണ്ട് ഇന്റെഗ്രിൻ നൾ റ്റാലിൻ നൾ കോശങ്ങളിൽ അല്ലെങ്കിൽ PEG പ്രതലത്തിൽ കൾച്ചർ ചെയ്യപ്പെടുന്ന കോശങ്ങളിൽ റിട്രോഗ്രേഡ് ഫ്ലോയിൽ വർദ്ധനവ് കൊണ്ടുവരുന്നതെങ്ങനെ ഇവിടെ മെംബ്രേയ്ൻ ടെൻഷൻ സുസ്ഥിരമാണെന്ന് നമ്മൾ സങ്കൽപ്പിക്കുന്ന ഒരു സാധ്യതയാണ് ഒന്ന് ഉദാഹരണത്തിന് ഉയർന്ന നിരക്കിലുള്ള റിട്രോഗ്രേഡ് ഫ്ലോയുടെ കാര്യം തന്നെയെടുക്കാം റിട്രോഗ്രേഡ് ഫ്ലോയിൽ വർദ്ധനവ് പ്രകടമാകുന്ന പക്ഷം മെംബ്രേയ്ൻ ടെൻഷനിൽ കുറവ് സംഭവിക്കുന്നു മേല്പറഞ്ഞ മെംബ്രേയ്ൻ ടെൻഷൻ എപ്രകാരമാണ് നമുക്ക് നിലനിർത്താനാകുക അധിക തോതിൽ മോണോമെറുകൾ ചേർക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ പോളിമറൈസേഷന്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെയോ ഇത് നമുക്ക് സാധ്യമാകുന്നു റിട്രോഗ്രേഡ് ഫ്ലോ ഉയർന്ന നിരക്കിൽ നിലനിൽക്കുന്നതിനാൽ ഫിലമെന്റുകളിലേക്ക് അധികമായി G ആക്റ്റിൻ സംയോജിപ്പിച്ച് ഇത് സുസ്ഥിരമാക്കുവാൻ നമുക്ക് സാധിക്കും എന്നതാണ് വസ്തുത ഇതുവരെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു അതായത് എഡ്ഹെറെന്റ് സാഹചര്യങ്ങളിലും ഡെൻഡ്രൈറ്റിക് കോശങ്ങളിൽ നിയതമായ റിട്രോഗ്രേഡ് ഫ്ലോ അനുഭവപ്പെടുന്നുണ്ട് എന്നതാണിത് നോൺ എഡ്ഹെറെന്റ് സാഹചര്യങ്ങളിൽ റിട്രോഗ്രേഡ് ഫ്ലോ സാധ്യമല്ല എന്നാൽ ഇന്റെഗ്രിൻ നൾ കോശങ്ങളുടെ കാര്യത്തിൽ മേല്പറഞ്ഞ റിട്രോഗ്രേഡ് ഫ്ലോയുടെ നിരക്ക് വളരെ ഉയർന്നതാണ് ഗവേഷകർ ഉന്നയിക്കുന്ന അടുത്ത സുപ്രധാന ചോദ്യമെന്നത് ഇവയുടെ വേഗതയാണ് കോശങ്ങളെ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾക്ക് വിധേയമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് സങ്കൽപ്പിക്കുക ഉദാഹരണത്തിന് ഇത് നിങ്ങളുടെ PEG പ്രതലത്തിന്റെ പശ്ചാത്തലമാണെന്ന് കരുതുക ഇതിന് മുകളിൽ ക്രമരഹിതമായി സീറം കോട്ടിങിന്റെ ഏതാനും ചില വരകൾ വരയ്ക്കുക അക്ഷരാർത്ഥത്തിൽ ഈ സീറം കോട്ടിങ് എഡ്ഹെറെന്റാണ് എന്നാൽ ഇതിന്റെ പശ്ചാത്തലമാകട്ടെ നോൺ എഡ്ഹെറെന്റാണ് ഈ കാണുന്ന ഭാഗം തീർത്തും നോൺ എഡ്ഹെറെന്റ് ആയതിനാൽ തന്നെ കോശങ്ങളുടെ ശ്രദ്ധ പതിയുന്നത് എഡ്ഹെറെന്റായ വരകളിൽ മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കോശങ്ങൾക്ക് അനുരൂപേണ മേല്പറഞ്ഞ ഗതിവേഗത്തിനൊത്ത രീതിയിലുള്ള ഒരു മാറ്റം സാധ്യമാണോ കോശങ്ങളുടെ ശരാശരി വേഗതയെന്നത് യഥാർത്ഥത്തിൽ സമയത്തിന്റെ ഒരു പ്രവർത്തനമാണ് ഈ കാണുന്ന സോണുകൾ ഞാൻ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക ഇത് എഡ്ഹെറെൻസ് സ്പോട്ടുള്ള ഒരു സോണാണ് എന്നാൽ ഇതാകട്ടെ എഡ്ഹെറെൻസ് സ്ട്രൈപ്പുള്ള മറ്റൊരു സോണാണ് മേല്പറഞ്ഞ സോണുകളിലൂടെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കോശത്തിന്റെ വേഗത അഥവാ മൈഗ്രേഷൻ റേറ്റ് എന്നത് മാറ്റമില്ലാതെ തുടരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കോശങ്ങളുടെ വേഗതയിൽ മാറ്റം സംഭവിക്കുന്നില്ല എഡ്ഹെറെന്റ് നോൺ എഡ്ഹെറെന്റ് എന്നീ സോണുകൾ സംയോജിപ്പിക്കാനുള്ള സാഹചര്യം നൽകിയാലും തത്സമയം അതിനോട് പൊരുത്തപ്പെടുവാൻ കോശങ്ങൾക്ക് സാധിക്കും എന്നതാണ് വസ്തുത സമാനമായ പരീക്ഷണം ഫൈബ്രോബ്ലാസ്റ് കോശങ്ങളിൽ സംഘടിപ്പിച്ചപ്പോഴും മേല്പറഞ്ഞ പശ്ചാത്തലം തന്നെയാണ് ഗവേഷകർ ഉപയോഗപ്പെടുത്തിയത് ഫൈബ്രോബ്ലാസ്റ് കോശങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയപ്പോൾ എഡ്ഹെസീവ് സോണുകളിൽ റിട്രോഗ്രേഡ് ഫ്ലോ സാധ്യമാണെങ്കിലും കാര്യക്ഷമമായ ചലനമൊന്നും ഉണ്ടാകുന്നില്ല എന്ന കണ്ടെത്തലിനാണ് അവരെത്തിയത് ഇത്തരമൊരു സാഹചര്യത്തിൽ ലഭ്യമാകുന്ന കൈമോഗ്രാഫ് എങ്ങനെയിരിക്കും ഉദാഹരണത്തിന് എനിക്ക് ഈ കാണുന്ന കോശത്തിനെ സസൂക്ഷ്മം വീക്ഷിക്കണമെന്ന് വിചാരിക്കുക ഈ കാണുന്ന കോശത്തിന്റെ പ്രസ്തുത ഭാഗം ഒരു എഡ്ഹെറെന്റ് സ്പോട്ടാണ് എന്നാൽ അതിന്റെ പശ്ചാത്തലമാകട്ടെ നോൺ എഡ്ഹെറെന്റും ഇതാണ് മേല്പറഞ്ഞ കോശം ഒരു കൈമോഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സോണിൽ റിട്രോഗ്രേഡ് ഫ്ലോ ഉണ്ടെന്നും എന്നാൽ മറ്റ് അനുബന്ധ സോണുകളിൽ റിട്രോഗ്രേഡ് ഫ്ലോ നിരപ്പാണെന്നതുമാണ് നമുക്ക് കണ്ടെത്താനാകുക ഇതാണ് എന്റെ ടൈം ആക്സിസ് ഇത് എഡ്ഹെറെന്റ് സോണും ഇത് നിങ്ങളുടെ നോൺ എഡ്ഹെറെന്റ് സോണുമാണ് മേല്പറഞ്ഞ നോൺ എഡ്ഹെറെന്റ് സോണിൽ റിട്രോഗ്രേഡ് ഫ്ലോയുടെ നിരക്ക് പൂജ്യമാണ് എന്നാൽ എഡ്ഹെറെന്റ് സോണിലാകട്ടെ അതിന്റെ മൂല്യം പോസിറ്റീവാണ് ഫൈബ്രോബ്ലാസ്റ് കോശങ്ങളും ഡെൻഡ്രൈറ്റിക് കോശങ്ങളും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസമാണ് ഇതിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത് ഇതൊരു എഡ്ഹെറെന്റ് സോണാണെന്നും ഇത് ഒരു നോൺ എഡ്ഹെറെന്റ് സോണാണെന്നും നമുക്ക് അനുമാനിക്കാം എഡ്ഹെറെന്റ് സോണിൽ കാണപ്പെടുന്ന കോശങ്ങളിൽ റിട്രോഗ്രേഡ് ഫ്ലോ പരിമിതമായിരിക്കും എന്നാൽ നോൺ എഡ്ഹെറെന്റ് സോണിൽ കാണപ്പെടുന്ന കോശങ്ങളിൽ റിട്രോഗ്രേഡ് ഫ്ലോയുടെ തോതിൽ ക്രമാധീതമായ വർദ്ധനവ് പ്രകടമായിരിക്കും ഇത് ഡെൻഡ്രൈറ്റിക് കോശങ്ങളെ സംബന്ധിച്ച കാര്യമാണ് എന്നാൽ ഫൈബ്രോബ്ലാസ്റ് കോശങ്ങൾക്ക് മേല്പറഞ്ഞ രീതി അനുയോജ്യമാകണമെന്നില്ല ഇനി മോളിക്യുലർ ക്ലച്ചിനോട് സമാനമായ ഒരു ചിത്രം വരയ്ക്കണമെന്ന് വിചാരിക്കുക നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു എങ്കേജ്ഡ് സെറ്റാണിതും ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഇത് പ്രൊട്രൂഷനാണ് എങ്കിൽ ഇത് റിട്രോഗ്രേഡ് ഫ്ലോയെ സൂചിപ്പിച്ചിക്കുന്നു ഒരു ഫിലമെന്റാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഇത് അതിന്റെ ഇന്റെഗ്രിൻ കണക്ഷനാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്ലിപ്പിങ് കൈൻഡ് എന്ന സാഹചര്യമുണ്ടായെന്ന് കരുതുക എന്താണ് മേല്പറഞ്ഞ സ്ലിപ്പിങ് കൈൻഡ് PEG കൊണ്ട് പ്ലേറ്റ് ചെയ്ത പ്രതലങ്ങളിൽ കാണപ്പെടുന്നത് പോലെ ഇന്റെഗ്രിനുകൾ ഉണ്ടെങ്കിലും അവ പ്രതലവുമായി ബന്ധപ്പെട്ടല്ല ദൃശ്യമാകുന്നത് ഇവിടെ കാണപ്പെടുന്ന ഫിലമെന്റിൽ റിട്രോഗ്രേഡ് ഫ്ലോ ഭാഗികമായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ പ്രൊട്രൂഷൻ അതേപടി തന്നെ തുടരുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ റിട്രോഗ്രേഡ് ഫ്ലോ ഭാഗികമായി വർദ്ധിച്ച നിലയിൽ തന്നെയാണ് കാണപ്പെടുന്നത് എന്നാൽ മറ്റ് സാഹചര്യങ്ങളിൽ ഇത് അൺകപ്പിൾഡ് ആകാനുള്ള സാധ്യത ഏറെയാണ് എന്താണ് ഈ അൺകപ്പിൾഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റെഗ്രിൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കോശം അതിന്റെ റിട്രോഗ്രേഡ് ഫ്ലോ വർദ്ധിപ്പിക്കുകയും പ്രൊട്രൂഷൻ റേറ്റ് ഈ കാണുന്ന നിരക്കിലാക്കുകയും ചെയ്യുന്നു ഇതിന്റെ പരിണിതഫലമെന്നോണം കോശത്തിന്റെ പ്രൊട്രൂഷൻ റേറ്റ് ഒരു കോൺസ്റ്റന്റായി തന്നെ നിലനിർത്തപ്പെടുന്നു എന്നതാണ് വസ്തുത എന്നാൽ റിട്രോഗ്രേഡ് ഫ്ലോയുടെ കാര്യത്തിൽ സ്ഥിതി മറ്റൊന്നാണ് അക്ഷരാർത്ഥത്തിൽ ഈ കാണുന്ന നീളമെന്നത് റിട്രോഗ്രേഡ് ഫ്ലോയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് സമമായിരിക്കും എഡ്ഹെഷൻ സ്വതന്ത്രമായ സന്ദർഭങ്ങളിൽ റിട്രോഗ്രേഡ് ഫ്ലോയിൽ വർദ്ധനവ് സംഭവിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം ഇതോടൊപ്പം കപ്ലിങിന്റെ സ്വാധീനം കൂടിയുണ്ടായാൽ മേല്പറഞ്ഞ റിട്രോഗ്രേഡ് ഫ്ലോയുടെ വ്യാപ്തിയും നിയതമായ തോതിൽ ക്രമീകരിക്കപ്പെടുന്നു ഇതിലൂടെ അമീബോയ്ഡൽ മൈഗ്രേഷനെ സംബന്ധിക്കുന്ന ചർച്ചകൾക്ക് നാം ഇവിടെ വിരാമമിടുകയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ റീഡിങ് അസൈൻമെന്റ് നൽകുവാൻ പോവുകയാണ് നേച്ചർ സെൽ ബയോളജിയിൽ 2010 ൽ പ്രസിദ്ധീകരിച്ച റെൻകവിറ്റ്സ് et al ന്റെ പ്രബന്ധമാണിത് ഇതിലൂടെ ഞാൻ മറ്റൊരു മൈഗ്രേഷൻ പ്രക്രിയയെ കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുവരെ നാം മീസെൻകൈമൽ അമീബോയ്ഡൽ എന്നീ മൈഗ്രേഷനുകളെ കുറിച്ചാണ് വിശദീകരിച്ചത് ഇവ രണ്ടിലും കോശങ്ങൾ സ്വതന്ത്രമായി മൈഗ്രേറ്റ് ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവ സിംഗിൾ സെൽ മൈഗ്രേഷന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് വൂണ്ട് ഹീലിങ് പ്രക്രിയയുടെ കാര്യം തന്നെയെടുക്കാം മൈഗ്രേറ്റ് ചെയ്യാൻ കെല്പുള്ള ഏതാനും ചില കോശങ്ങളുടെ സമൂഹം ഇവിടെ നിലവിലുണ്ട് മുറിവ് ഉണങ്ങുന്ന പ്രക്രിയ പോലുള്ള സാഹചര്യങ്ങളിൽ മേല്പറഞ്ഞ രീതിയിലുള്ള സിംഗിൾ സെൽ മൈഗ്രേഷനിൽ നിന്നും വിഭിന്നമായി കലക്ടീവ് സെൽ മൈഗ്രേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കലക്ടീവ് സെൽ മൈഗ്രേഷന്റെ ഭാഗമായി കോശങ്ങളുടെ പല സമൂഹങ്ങൾ ഇവിടെ ദൃശ്യമാണ് ഉദാഹരണത്തിന് ഈ കാണുന്നത് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം കോശങ്ങളാണെന്ന് വിചാരിക്കുക ഞാൻ വരച്ച ഈ ചിത്രത്തിൽ നിന്നും കോശങ്ങൾ പരസ്പരം പറ്റിച്ചേർന്ന് നിൽക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു സാഹചര്യമെന്തെന്നാൽ ഒരു കൂട്ടം കോശങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവ ഒരു പക്ഷെ ഒരേ ദിശയിൽ തന്നെയാകും ചലിക്കുന്നുണ്ടാവുക മേല്പറഞ്ഞ രീതിയിൽ ചലിക്കുമ്പോൾ നിശ്ചിത അകലം പാലിക്കുവാൻ അവയ്ക്കിടയിൽ നിയതമായ സിഗ്നലിങ് സംവിധാനങ്ങൾ നിലവിലുണ്ട് എന്നതാണ് വസ്തുത ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കലക്ടീവ് മൈഗ്രേഷനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം നിങ്ങളുടെ വിലയേറിയ മനഃസാന്നിധ്യത്തിന് നന്ദി